അതിനാൽ ഈ രസകരമായ ചോദ്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നു സ്വപ്നത്തിൽ നിങ്ങൾ എവിടെയാണെന്നും എത്ര മനോഹരമായ ഫിസിയോളജിക്കൽ ടൈമിംഗ് ആണെന്നും പക്ഷേ ഇത് നെറ്റ്വർക്കുകളുടെ dissociation ആണ് അതിനാൽ അതെന്താണ് ഇപ്പോൾ നിങ്ങൾ ഇത് ശാരീരികവുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ വിശദീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഒരു unifying binding oscillation ആണോ എന്നാൽ ഇച്ഛാശക്തിയും ഉദ്ദേശ്യവും എവിടെയാണ് ചില സമയങ്ങളിൽ ശാരീരികത ഒരു ദിശയിലേക്ക് പോകുന്നുണ്ടാകാം പക്ഷേ നിങ്ങളുടെ ഇച്ഛാശക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ നയിക്കുകയും നിങ്ങളെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ഉത്തരം ലഭിക്കാത്ത ധാരാളം ചോദ്യങ്ങളുണ്ട് അറിവിന്റെ ബാഹുല്യം ഉണ്ടായിരുന്നിട്ടും ഒരു ദിവസം ആ വലിയ ചോദ്യത്തിന് ഏറ്റവും വലിയ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് കഴിയും ഞാൻ ഒരു വലിയ ചോദ്യം എഴുതിയിട്ടുണ്ട് നമ്മൾ വ്യക്തിഗത ബ്രെയിനിനെയും ബിഹേവിയർ മിറർ ന്യൂറോണുകകളെക്കുറിച്ചും ഫയറിംഗിനെക്കുറിച്ചും ശാരീരികതയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഭൂമി പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് anthropomorphic തത്വങ്ങൾ അവിടെയുണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ പ്രപഞ്ചത്തിൻറെ ഭൌതികത ജീവൻ സൃഷ്ടിക്കുന്നതിനെ അനുകൂലിക്കുന്നു തത്ത്വചിന്താപരമായി മനുഷ്യരായ നമുക്ക് ഒരു ഈഗോ ഉണ്ട് നമ്മൾ പ്രപഞ്ചത്തിൻറെ കേന്ദ്രമാണെന്ന് നമ്മൾ കരുതുന്നു ഈ ലോകത്തിലെ എല്ലാം വിശദീകരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു പക്ഷേ അതാണ് നമ്മൾ വികസിപ്പിച്ചെടുത്ത ഭാഷയുടെയും ചിന്തയുടെയും ഉപയോഗം എന്നാൽ പ്രപഞ്ചത്തിൻറെ സങ്കീർണ്ണതയിലെ വ്യക്തിഗത ബ്രെയിൻ എവിടെയാണ് ഇപ്പോൾ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്ന തലത്തിലാണ് മറ്റെന്തെങ്കിലും ഭൌതികശാസ്ത്രമുണ്ടോ നമ്മൾക്ക് അറിയില്ല നിങ്ങൾ ഗുരുത്വാകർഷണവും അടിസ്ഥാന ശക്തികളും ക്വാണ്ടവും പ്രപഞ്ചത്തിലേക്ക് പ്രയോഗിക്കാൻ ശ്രമിക്കുകയാണ് പ്രപഞ്ചത്തിലെ ഈ സ്ഥാനവുമായി നാം ഇപ്പോഴും നമ്മുടെ ബ്രെയിനിനെ ബന്ധിപ്പിച്ചിട്ടില്ല അതായത് നമ്മൾ ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുന്നു കാരണം നമ്മുടെ ബ്രെയിൻ തലയോട്ടിയിൽ ഉള്ളിൽ ഇരിക്കുകയും അതിൻറെ സവിശേഷതകളും ആണ് ഉള്ളത് ബ്രെയിനിൻറെ വികാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതായി നമുക്കറിയാം ബാഹ്യ സ്വാധീനമില്ലാതെ ഇത് വികസിക്കുന്നില്ല അതിനാൽ എന്റെ നെറ്റ്വർക്കിൻറെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ജീവിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു അതിനാൽ ഞാൻ ഇപ്പോൾ ഭൂമിയെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് നമ്മിൽ സങ്കീർണ്ണതയിലുള്ള മുഴുവൻ ഭൌതികതയും എവിടെയാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല ഇത് ഒരേ ഭൌതിക നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാ ഭൌതികശാസ്ത്രവും ബ്രെയിനിലേക്ക് പോയിട്ടുണ്ടാകാം ഇത് ഒരു ടെമ്പോറൽ കാര്യമാണോ അതോ ഇത് ഒരു സ്പേഷ്യൽ കാര്യമാണോ അതിനാൽ ഞാൻ യഥാർത്ഥത്തിൽ ധാരാളം ചോദ്യങ്ങളുമായി അവശേഷിക്കുന്നു കാരണം ഇത് നമ്മൾ മനസിലാക്കാൻ ശ്രമിക്കുന്ന ചോദ്യങ്ങളാണ് വ്യത്യസ്ത ഭാഷയിൽ നിങ്ങൾ ധാരാളം ജനപ്രിയ രചനകൾ വായിച്ചാൽ Michio Kakuൻറെ future of mind എന്ന് വിളിക്കുന്ന ഒരു പുസ്തകമുണ്ട് അതിനാലാണ് ഈ വാക്യങ്ങൾ വളരെ ഡ്യൂപ്ലിക്കേറ്റിവ് ആയി കാണപ്പെടുന്നത് ബ്രെയിൻ എങ്ങനെ മനസ്സിനെ സൃഷ്ടിക്കുന്നു Damasio ഒരു ലേഖനം എഴുതി യഥാർത്ഥത്തിൽ ഞാൻ ഇത് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞു അതിനാൽ എനിക്ക് ഇത് ഒരു disclaimer ആയി ഉപയോഗിക്കാൻ കഴിയും പക്ഷേ അദ്ദേഹം പറഞ്ഞു ബ്രെയിൻ എങ്ങനെ മനസ്സിനെ സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ ഭാവിയിലെ മനസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് ധാരാളം ഓവർലാപ്പിംഗ് ആശയങ്ങൾ ഉണ്ട് നിങ്ങൾ രണ്ട് മൂന്ന് നാല് പുസ്തകങ്ങൾ വായിച്ചതിനു ശേഷം അവസാനം എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല descartes errors എന്ന പുസ്തകം Damasio എഴുതിയിട്ടുണ്ട് ധാരാളം ആളുകൾക്ക് ക്വാണ്ടം എന്നാൽ ബ്രെയിനിൽ എഴുതുന്നതാണ് ധാരാളം കാര്യങ്ങൾ നടക്കുന്നു അവയിൽ ചിലത് ആവർത്തിച്ചുള്ളതാണ് ചിലത് യഥാർത്ഥമാണ് പക്ഷേ സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ശരിക്കും തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ മനുഷ്യജീവിതത്തിൻറെ ബാക്കി ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതെന്താണ് ഈ ചോദ്യം അഭിസംബോധന ചെയ്യപ്പെടുന്നു ഇവിടെ നിന്ന് നിങ്ങൾ എവിടേക്ക് പോകുന്നു മിസ്റ്റർ ഒബാമ എന്തുകൊണ്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് അതിനാൽ ഇതാണ് ബരാക് ഒബാമ നമുക്കറിയാം മനുഷ്യരെന്ന നിലയിൽ നാം പ്രകാശവർഷം അകലെയുള്ള താരാപഥങ്ങളെ തിരിച്ചറിയുന്നു ഒരു ആറ്റത്തേക്കാൾ ചെറിയ കണങ്ങളെ പഠിക്കാൻ കഴിയും പക്ഷേ നമ്മുടെ ചെവികൾക്കിടയിൽ ഇരിക്കുന്ന മൂന്ന് പൌണ്ട് ദ്രവ്യത്തിൻറെ രഹസ്യം നമ്മൾ ഇപ്പോഴും അൺലോക്ക് ചെയ്തിട്ടില്ല അതിനാൽ 2014 ൽ അദ്ദേഹം ബ്രെയിൻ എന്ന പേരിൽ ഒന്ന് ആരംഭിച്ചു ബ്രെയിൻ ഇനിഷ്യേറ്റീവ് ഇത് യഥാർത്ഥത്തിൽ ഒരു ചുരുക്കപ്പേരാണ് ഇത് നന്നായി ചേരുന്നുണ്ട് എങ്കിലും നൂതന ന്യൂറോ സാങ്കേതിക വിദ്യകളിലൂടെ ബ്രെയിൻ ഗവേഷണം പുരോഗമിക്കുകയാണ് അതിനാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം നിങ്ങൾ ഈ ഡോക്യുമെൻറ് വായിക്കണം കാരണം ഈ ഡോക്യുമെൻറ് PDF രൂപത്തിൽ ഇൻറർനെറ്റിൽ ലഭ്യമാണ് കാരണം നിങ്ങൾ ബരാക് ഒബാമ എന്ന് എഴുതുകയാണെങ്കിൽ PDF രൂപത്തിലും ഇൻറർനെറ്റിലും ഞാൻ കരുതുന്നു നൂതന ന്യൂറോ സാങ്കേതികവിദ്യകൾ എന്ന് ഇത് പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ സാങ്കേതികവിദ്യകളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തോന്നിയേക്കാം പക്ഷേ ഇത് വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ കണ്ടത് നല്ല ഒരു വിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ബ്രെയിൻ ഗവേഷണം വളരെ വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ ചൈനയിലും സമാനമായ രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അദ്ദേഹം വാഗ്ദാനം ചെയ്ത പണത്തിൻറെ അളവാണ് ശാസ്ത്രജ്ഞർക്ക് ഉപകരണം നൽകാനുള്ള ഏകദേശ നിക്ഷേപം അവർക്ക് ബ്രെയിനിൻറെ ചലനാത്മക ചിത്രം കിട്ടേണ്ടതുണ്ട് കൂടാതെ നമ്മൾ എങ്ങനെ പഠിക്കുന്നുവെന്നും ഓർമ്മിക്കുന്നുവെന്നും നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സാങ്കേതികവിദ്യ റോബോട്ടുകളെ നിർമ്മിക്കുക എന്നത് മാത്രമല്ല കൃത്രിമബുദ്ധി സൃഷ്ടിക്കുക എന്നത് കൂടിയാണ് ഇതാണ് ഈ മുഴുവൻ കാര്യത്തിലും അന്തർലീനമായിട്ടുള്ളത് നിങ്ങൾ ശാസ്ത്രജ്ഞർക്ക് ഒരു ഉപകരണം നൽകുന്നു അവർക്ക് ബ്രെയിനിൻറെ ഒരു ചിത്രം നേടേണ്ടതുണ്ട് അതിനാൽ ബ്രെയിൻ ഇനിഷ്യേറ്റീവ് ബ്രേക്ക് ചെയ്യുക അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് സെൽ തരങ്ങളുടെ സെൻസസ് വളരെ മൈക്രോ ലെവലിൽ ഏറ്റവും കുറഞ്ഞ സ്കെയിലിൽ സൃഷ്ടിക്കുക അതിനാൽ അമ്പത് കുറഞ്ഞത് അമ്പത് തരം ന്യൂറോണുകളുണ്ടെന്ന് നമുക്കറിയാം എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾക്ക് അറിയില്ല നമ്മൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല ഒരുപക്ഷേ അവ കൂടുതൽ ഉണ്ടായിരിക്കാം പക്ഷേ ഇത് നമുക്കറിയാം അവിടെ ബ്രെയിനിലെ ധാരാളം glial cellsകൾ ഉണ്ട് ഇത് ബ്രെയിനിൽ ഘടനാപരമായ മാപ്പുകൾ സൃഷ്ടിക്കുന്നു ഘടന ഉപയോഗിച്ച് നമ്മൾക്ക് ആരംഭിക്കാം പുതിയ വലിയ തോതിലുള്ള നെറ്റ്വർക്ക് റെക്കോർഡിംഗ് കഴിവുകൾ വികസിപ്പിക്കുക അതിനാൽ നമ്മൾ ടെമ്പോറൽ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ സർക്യൂട്ട് മാനിപുലേഷനുവേണ്ടിയുള്ള ഉപകരണങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരേ സമയം മുഴുവൻ ബ്രെയിനിനെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു അന്വേഷണം നിങ്ങൾ എങ്ങനെ സൃഷ്ടിക്കുമെന്ന് ഞാൻ പറയുകയായിരുന്നു അതിനാൽ ഇവിടെയാണ് മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ ബ്രെയിനിനെ പോക്ക് ചെയ്യുന്നു ന്യൂറോണൽ പ്രവർത്തനത്തെ ബിഹേവിയറുമായി ബന്ധിപ്പിക്കുക ചെറിയ തോതിലുള്ള സ്കെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ട്രാൻസ് കോർട്ടിക്കൽ മുതൽ ബിഹേവിയറിലേക്ക് നിങ്ങൾ എവിടെയാണ് ചാടുന്നത് ഇതാണ് ബിഹേവിയറിൻറെ മുഴുവൻ രൂപവും ട്രാൻസിലേഷൻ എന്ന വസ്തുത ഇപ്പോഴില്ല തിയറി മോഡലിംഗ് സ്ഥിതിവിവരക്കണക്കുകളും പരീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൂട്ടലും സംയോജിപ്പിക്കുക അതിലേക്ക് എത്ര ഫീൽഡുകൾ പ്രവേശിക്കുന്നുവെന്ന് കാണുക ഹ്യൂമൻ ഇമേജിംഗ് സാങ്കേതികവിദ്യയ്ക്ക് അടിസ്ഥാനമായ മെക്കാനിസങ്ങൾ വിശദീകരിക്കുക മനുഷ്യ ഡാറ്റ ശേഖരണം പ്രാപ്തമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുക അറിവും പരിശീലനവും പ്രചരിപ്പിക്കുക അതിനാൽ പ്രപഞ്ചത്തിൽ ബ്രെയിൻ എങ്ങനെ സ്ഥാപിക്കാമെന്നതൊഴിച്ചാൽ ഒന്നും അവശേഷിക്കുന്നില്ല അതിനാൽ ഇതിൽ നിന്ന് അഞ്ച് പ്രധാന മേഖലകൾ ഉയർന്നുവരുന്നു എല്ലാ രാജ്യങ്ങളും ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു ഇത് ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്രെയിൻ പ്രവർത്തനത്തിൻറെ ബ്രെയിൻ ഡൈനാമിക്കും ന്യൂറൽ സർക്യൂട്ടും ബന്ധിപ്പിക്കുന്നതിനും വിശദമാക്കുന്നതിനും ബ്രെയിനിൻറെ ഡൈനാമിക് പ്രവർത്തനത്തിൻറെയും ഘടനയുടെയും മൾട്ടി സ്കെയിൽ സംയോജനമാണ് ഇത് അതിനാൽ ഘടനയും പ്രവർത്തനവും ഉൾപ്പെടെ ഇത് തത്സമയ ഫിസിയോളജിക്കൽ ബിഹേവിയറൽ കോഗ്നിറ്റീവ് ഔട്ട്പുട്ടുകൾ എന്നിവയാണ് ഇപ്പോൾ യഥാർത്ഥ സമയം എന്ന് പറയുന്നത് അത് ചെയ്യുന്ന സമയമാണ് നൽകുന്നു എന്ന് ചിന്തിക്കുക ഞാൻ പറഞ്ഞതുപോലെ ഒരു ടാസ്ക് നൽകുക എന്നിട്ട് ചെയ്യൂ എന്ന് കരുതുക എന്നാൽ ബ്രെയിൻ ശരിക്കും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുമ്പോൾ അത് തത്സമയ കാര്യമാണ് കൂടാതെ നിങ്ങൾക്ക് ഫിസിയോളജി മനശാസ്ത്രജ്ഞരുടെ ന്യൂറോ സാങ്കേതികവിദ്യയും ഗവേഷണവും ഇമേജ് സെൻസ് റെക്കോർഡിനുള്ള ഉപകരണങ്ങൾ സൃഷ്ടിക്കാനും റിയൽ ഇഫക്റ്റ് ടൈം ബ്രെയിൻ ഫംഗ്ഷനുകളും സങ്കീർണ്ണമായ പെരുമാറ്റവും വിഷ്വൽ ശേഖരിക്കുന്നതിനുള്ള സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കുന്നതിനും മോഡൽ സ്റ്റോർ വിശകലനം ചെയ്യുന്നതിനും ബ്രെയിൻ ഡാറ്റ വിതരണം ചെയ്യുന്നതിനും cogitative സിദ്ധാന്തതിനും ബ്രെയിൻ പ്രചോദനാത്മകമായ ആശയങ്ങൾ രൂപകൽപ്പന എന്നിവയ്ക്കും ആവശ്യമാണ് വർക്ക് ഫോഴ്സ് ഡെവലപ്മെൻറ് AI യുടെയും ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻറെർഫേസിൻറെയും ഈ പുതിയ വ്യവസായമെല്ലാം എവിടെയാണ് വരുന്നത് അതിനാൽ പ്രധാന ഡയറക്ഷൻ എന്ന് പറയുന്നത് ആദ്യം ബ്രെയിനിനെ മനസിലാക്കുക അത് ആദ്യത്തെ മൂന്ന് നാലെ കൃത്രിമബുദ്ധി പ്രതിനിധീകരിക്കുന്നു ഇത് ബ്രെയിൻ പോലെയുള്ള മെഷീനുകൾ നിർമ്മിക്കുന്നു ബുദ്ധിയുള്ള മെഷീനുകൾ ഇപ്പോഴും അകലെയാണ് എന്നാണ് എൻറെ ചിന്ത എൻറെ ചിന്ത എന്നു പറയുന്നത് നമ്മൾ മനുഷ്യ ബ്രെയിനിനെ കൃത്രിമബുദ്ധിയുടെ ഒരു മാതൃകയായി എടുത്തിട്ടുണ്ട് കാരണം നമ്മളെത്തന്നെ നമുക്കറിയാം നമ്മളെക്കുറിച്ച് നമുക്കറിയാവുന്നത് എന്തായാലും നിങ്ങൾ മെഷീൻ അല്ലെങ്കിൽ പുറത്തു വരുന്നതെല്ലാം മനുഷ്യ മനസ്സിൻറെ പരിധിയിലുള്ള മാത്രമായിരിക്കും ഇത് കൃത്യമായി മനുഷ്യനായിരിക്കില്ല കാരണം നിങ്ങൾ മുഴുവൻ ഇനങ്ങളെയും നോക്കുകയാണെങ്കിൽ മറ്റ് മൃഗങ്ങളുമുണ്ട് അവയുടെ കഴിവുകൾ പക്ഷികളെപ്പോലെ വളരെ ഉയർന്നതാണ് നായ്ക്കളെപ്പോലെ മണത്തിലൂടെ ഉയർന്ന ആവൃത്തികൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും അതിനാൽ ഒരു തികഞ്ഞ കൃത്രിമബുദ്ധിക്ക് ആ ബുദ്ധിയും അല്ലെങ്കിൽ നൂറ്റി എൺപത് ടൺ ഗോറില്ലയുടെ പൂർണ്ണ ശക്തിയും എടുക്കേണ്ടിവരും നമ്മൾ ഇന്റലിജൻസിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ യന്ത്രം ചെയ്യില്ല നമ്മൾ നിർമ്മിക്കുന്ന ഏത് യന്ത്രവും ഒരു മനുഷ്യനാകില്ല കുറഞ്ഞത് അത് മറ്റെന്തെങ്കിലും ആയിരിക്കും Brain computer interface ഒരു പുതിയ കാര്യമാണ് ഈ ഘട്ടത്തിൽ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള രോഗികളെ സഹായിക്കുന്നതിനും പ്രവർത്തനം സാധാരണ നിലയിലേക്ക് പുന സ്ഥാപിക്കുന്നതിനും ബ്രെയിനിന്നെ മാനിപുലേറ്റ് ചെയ്യുന്നതിനും ഇത് ആവശ്യമാണ് national evolution mind mapping brain computers and brain prosthetic brain interface automated testing എന്നിവയിൽ നമ്മൾ ഏർപ്പെടുന്നു അതിനാൽ ഇവ ചില സ്ഥലങ്ങളാണ് ഇപ്പോൾ ധാരാളം ഡാറ്റ പങ്കിടൽ ഉണ്ട് ഇപ്പോൾ ഇത് പലതും ഓപ്പൺ ഡൊമെയ്ൻ ആണ് അതിനാൽ ആർക്കും ഉപയോഗിക്കാൻ കഴിയും അതിനാൽ വീൽ പുനർനിർമ്മിക്കേണ്ടതില്ല ആരെങ്കിലും ഒരു നിശ്ചിത പോയിൻറ് നേടികഴിഞ്ഞാൽ അതിനാൽ Allen Institute brain atlas ബ്രെയിൻ പ്രോജക്റ്റിൻറെ സെൽ തരങ്ങളും ബ്രെയിൻ ഇനിഷ്യേറ്റീവ് ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റ് ഇതെല്ലാം നമ്മൾ ചെയ്യണം ഇതിൻറെയെല്ലാം വെബ്സൈറ്റ് കാണുക ഏത് തരം ജോലികൾ ആണ് ഉള്ളതെന്ന് കാണുക അതിനാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഞാൻ ഇത് പറയുമ്പോൾ നമ്മൾ ഡാർവിനെ മറികടക്കുക ആണോ ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് സ്വയം ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നിങ്ങൾ ഇതുപോലെയാകാൻ പദ്ധതിയിട്ടിട്ടുണ്ടോ നിങ്ങൾ അത് ആസൂത്രണം ചെയ്തിട്ടുണ്ടോ നമ്മൾ മനുഷ്യർ ഇതുപോലെയാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാൻ കരുതുന്നില്ല അതിനാൽ ഡാർവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല സിദ്ധാന്തമാണ് ഇപ്പോൾ വരെ നാം പരിണാമം പ്രാപിച്ചത് സ്വാഭാവിക തിരഞ്ഞെടുപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മളെ പരിണമിച്ച രീതിയിലൂടെയോ ആണ് എന്നാൽ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഡാർവിനിൽ നിന്ന് മാറുകയാണോ ആദ്യമായി ബ്രെയിനിൻറെ സങ്കീർണ്ണത ഒരു പരിധിവരെ പോയി ചക്രത്തിൽ നിന്നും ഉപകരണങ്ങളിൽ നിന്നും തീയിൽ നിന്നും തീ കണ്ടെത്തുന്നതിലൂടെ നമ്മൾ ഒരു ഘട്ടത്തിലെത്തി അവിടെ നമ്മൾ ബുദ്ധിപരമായ രൂപകൽപ്പന സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഇതിലേക്ക് നോക്കൂ നമ്മെ പരിണാമത്തിൽ നിന്ന് പുറത്തുകൊണ്ടുവന്നതാണോ അതോ ദൈവം നമ്മെ രൂപകൽപ്പന ചെയ്തതാണോ നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതെന്തും നാം ഇപ്പോഴും പ്രകൃതിദത്തമായ ഒഴുക്കിൽ മുന്നോട്ടു നീങ്ങുകയാണ് അതിനാൽ ദൈവം നമ്മോട് ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മെഷീനുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ആരെയെങ്കിലും ഏതെങ്കിലും ചെറുപ്പക്കാരനോട് ചോദിച്ചുനോക്കൂ കൂടാതെ നിങ്ങളിൽ ചിലർ മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിന്നെ ബിസിഐ എന്നിവയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം അവർ ശരിക്കും ആവേശഭരിതരായിരിക്കും അത് നല്ലതാണ് അത് അങ്ങനെ ആകണമോ മനുഷ്യനെപ്പോലെ ബുദ്ധിമാനായ ഒരു യന്ത്രം സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നതാണ് ചോദ്യം യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള തടസ്സം എന്തെന്നാൽ ചിന്തയും വികാരങ്ങളും എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല പക്ഷേ നമ്മളെപ്പോലെയുള്ള യന്ത്രം ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും മികച്ച കാര്യം നമ്മൾ മിക്കവാറും പ്രവർത്തിക്കുന്ന ദേവന്മാരെ പോലെയാണ് അതിനാൽ എന്നായിരിക്കും ഇത് സൃഷ്ടിക്കപ്പെടുക പെട്ടെന്നോ അതോ പിന്നീടോ അത് നമ്മളെ പോലെ ആയിരിക്കുമോ അത് നമ്മൾ മനുഷ്യരെ പോലെ ആയിരിക്കുമോ അല്ലെങ്കിൽ അത് വ്യത്യസ്തമായ ഒന്നായിരിക്കുമോ അത് നമ്മൾ സൃഷ്ടിച്ച ഒരു പുതിയ ജീവിവർഗമാകുമോ അത് പ്രകൃതിക്കിണങ്ങിയ ഗുണഗണങ്ങൾ അതിനു ഉണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോൾ നമുക്ക് ശരിക്കും അറിയില്ല അതിനാൽ നിങ്ങൾ എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലുള്ള ചില ശക്തമായ പുതിയ ഹോമോ സ്പീഷിസുകളാകാൻ താല്പര്യമുണ്ടോ ശരിക്കും നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ചലിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അതിലേക്ക് നോക്കുക കുടിക്കുക അല്ലെങ്കിൽ പക്ഷികളുടെ ഗുണനിലവാരവും നായയുടെ ശക്തിയും ഉണ്ട് മണത്തിലൂടെ ആവൃത്തികളും മനസ്സിലാക്കാൻ കഴിയും ഇത് ആരോ നിർമ്മിച്ച അത്ഭുതകരമായ ചിത്രമാണ് ഞാൻ ഇത് ഇൻറെർനെറ്റിൽ നിന്ന് കടമെടുത്തു നിങ്ങളുടെ എല്ലാ കണക്ഷനുകളും തലയോട്ടിനുള്ളിൽ ഇല്ല ഇത് ഒരു വലിയ കണക്റ്റുചെയ്ത കാര്യം പോലെയാണ് മാത്രമല്ല നിങ്ങളുടെ ബ്രെയിൻ മുഴുവൻ പ്രപഞ്ചവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് ബയോ എഞ്ചിനീയറിംഗ് ആണ് നമുക്കെല്ലാവർക്കും അറിയാം ജീൻ കൃത്രിമത്വം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള തരം മൃഗങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും ഇപ്പോഴും മൃഗങ്ങൾ fluorescent Ginny pigs അല്ലെങ്കിൽ cyborgsകൾ എന്നിവയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു നമ്മൾക്ക് നമ്മളുടെ മനുഷ്യശരീരങ്ങളുണ്ട് നമ്മളുടെ വയറുകൾ ഒരു വലിയ വലിയ കമ്പ്യൂട്ടറുമായി അല്ലെങ്കിൽ ചെറിയ കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അവയുടെ prosthesisൽ നിന്ന് മാനിപുലേറ്റ് ചെയ്താണ് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈറസ് അകത്തേക്ക് കടക്കുകയും വൈറസ് ജനിതകശാസ്ത്രത്തെ ഒന്നിടവിട്ട് മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാം ഈ ഡിജിറ്റൽ വൈറസുകൾ അവ ശരീരത്തിലേക്ക് പ്രേരിപ്പിക്കുകയും ശരിക്കും മാനിപുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഏറ്റവും പുതിയ പരീക്ഷണങ്ങൾ ബ്രെയിനിൽ നിന്നും ബ്രെയിനിലേക്ക് ഉള്ളത് പറയാൻ ശ്രമിക്കുന്നു നിങ്ങൾ പുരാണങ്ങളായ മഹാഭാരതത്തിലേക്കും രാമായണത്തിലേക്കും പോയാൽ ആളുകൾക്ക് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടെന്ന് കാണിച്ചുതന്നു അല്ലെങ്കിൽ അവർ കണ്ണുകൾ അടച്ച് കുറച്ച് മന്ത്രം ചൊല്ലും അവിടെ കയ്യിൽ ഒരു ആരോ ഉണ്ടായിരിക്കും അയാൾക്ക് ആശയവിനിമയം നടത്താമെന്ന് കഴിയുമെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നു അത് അക്കാലത്ത് ഫാൻറെസി ആയിരിക്കാം ഞാൻ പറഞ്ഞതുപോലെ ഈ ചോദ്യങ്ങൾ ഒന്നുതന്നെയാകാം ഫാൻറെസികളും ഒന്നായിരിക്കാം നമ്മുടെ പരീക്ഷണങ്ങൾ ഫാൻറെസികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാകാം കാരണം നമ്മുടെ അബോധാവസ്ഥയിലുള്ള മനസ്സിൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രേരിപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ല അതിനാൽ ഏറ്റവും പുതിയ പരീക്ഷണങ്ങൾ ഒരു വ്യക്തി EG ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് മറ്റൊരാൾക്ക് കൈമാറിയതായി കരുതുന്നുവെന്ന് പറയുക അവനും അതേ പ്രവൃത്തി ചെയ്യുന്നു നിങ്ങൾ ഈ emitter wireless EG conscious motor imagery motor cortex activity എന്നു വിളിക്കപ്പെടുന്നത് കാണുക ഇത് ബ്ലൂ ടൂത്ത് വഴി BCIപ്രക്രിയയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഏത് സാങ്കേതികതയാണെങ്കിലും ഇത് നാവിഗേഷൻ കോഡിലേക്ക് പോകുന്ന ഒരു ഇൻറർനെറ്റ് കോഡാണ് ഇപ്പോൾ ഇത് ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല ടൂളുകളെകുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ trans cranial magnetic stimulation എന്നറിയപ്പെടുന്ന ഒന്നുണ്ട് നിങ്ങൾ ഒരു കാന്തികക്ഷേത്രം ഇടുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു പാർക്കിൻസൺ എന്നുപറയുന്ന രോഗാവസ്ഥയിൽ ബ്രെയിനിൻറെ ഈ ഭാഗം ഉത്തേജിപ്പിക്കപ്പെടാൻ പേസ്മേക്കർ ഉപയോഗിക്കുന്നു ന്യൂറോളജിയിൽ ഈ രീതിയിലുള്ള ചികിത്സ വളരെ പ്രചാരം നേടിയിരിക്കുന്നു നിങ്ങൾ ഉത്തേജിപ്പിക്കുന്നത് എല്ലാം മാഗ്നെറ്റിക് ഫീൽഡ് ലൂടെ ഉത്തേജിപ്പിക്കപെടുന്ന ഗാഢമായ ബ്രെയിൻ ഡിപ്രഷനിൽ നിന്നും മറ്റ് രോഗങ്ങളിൽ നിന്നും നിങ്ങളെ ഭേദപ്പെടുത്തുന്നു അതിനാൽ ഇതേ ഡാറ്റ ഉയർന്ന വിശ്വസ്തതയോടെ ട്രാൻസ് മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ കോയിലായിരുന്ന റിസീവറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇവിടെ ഒരു സങ്കൽപ്പമുണ്ട് അതേ സാങ്കൽപ്പിക അതേ മേഖലകൾ അതിനാൽ ബ്രെയിനിന്നെ ബ്രെയിനുമായി സംസാരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അത് സംഭവിച്ചു ഒരു കുരങ്ങുണ്ട് യുഎസിൽ കുരങ്ങുകളിലും ജപ്പാനിലെ റോബോട്ടുകളിലും ഇത് റെക്കോർഡുചെയ്തു ഇത് ഇമേജറി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ കുരങ്ങ് വാഴപ്പഴത്തിനായി എത്തുമ്പോഴെല്ലാം ഈ ഡാറ്റ ഇൻറർനെറ്റ് വഴി കൈമാറ്റം ചെയ്യപ്പെട്ടു റോബോട്ടും ഇതുതന്നെ ചെയ്തു പക്ഷേ ഇത് ഇപ്പോഴും ശാരീരികതയാണ് ഞാൻ ഇപ്പോഴും അതിനെ ചലനത്തെക്കുറിച്ചുള്ള ശാരീരികത എന്ന് വിളിക്കുന്നു അതിനാൽ ഹോമോ സാപ്പിയൻസ് വംശനാശം സംഭവിക്കുമോ നിങ്ങൾ സത്യസന്ധമായി ചോദിച്ചാൽ ലോകത്ത് വളരെയധികം ഉത്കണ്ഠയുണ്ട് വളരെയധികം ഉത്കണ്ഠകൾ സാങ്കേതികവിദ്യയെക്കുറിച്ച് അത് നമ്മുടെ ജീവിതത്തെ ശരിക്കും മാറ്റുമോ അത് സംഭവിക്കും പക്ഷേ സങ്കൽപ്പിക്കുക അതിനാൽ നമ്മൾ ഒരു സിലിക്കൺ മനുഷ്യനെ സൃഷ്ടിക്കും അതിനാൽ ഹോളിവുഡ് സിനിമകൾ കാണുമ്പോൾ സിലിക്കൺ മനുഷ്യൻ നമ്മേക്കാൾ ബുദ്ധിമാനായിത്തീരുമെന്ന ഭയവും നിങ്ങൾക്കുണ്ട് ഇത് കൂടുതൽ ബുദ്ധിമാനായാൽ അത് അനിയന്ത്രിതമായിരിക്കും രജനികാന്തിൻറെ റോബോട്ട് ഫിലിം നിങ്ങൾ കണ്ടു അതിനാൽ ഈ ആശയങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ആളുകളുടെ തലയിൽ നിന്ന് ഉരുത്തിരിയുകയാണ് ഹോമോ സാപ്പിയൻമാർ ശരിക്കും ചലിക്കുന്ന റോബോട്ടുകളായി മാറുന്നുണ്ടോ അല്ലെങ്കിൽ റോബോട്ടുകൾ ഇല്ലെങ്കിൽ ചില സിലിക്കൺ ചിപ്പുകളെങ്കിലും ഘടിപ്പിക്കാൻ കഴിയുമോ സാങ്കേതികവിദ്യ എവിടേക്കാണ് നീങ്ങുന്നത് നിങ്ങളുടെ എല്ലാ മെമ്മറിയും നിങ്ങളുടെ എല്ലാ വികാരങ്ങളും നിങ്ങളുടെ തലയിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് ഒരു ചെറിയ ചിപ്പിൽ ഡിജിറ്റൈസ് ചെയ്യാൻ ഒരിക്കൽ നമ്മൾക്ക് കഴിയും അതിനാൽ അത് നിങ്ങളാണ് അതാണ് നിങ്ങൾ ലാപ്ടോപ്പിൽ ഇടുന്നത് ആരെങ്കിലും ഒരു ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഇടുന്നു നിങ്ങളിലേക്ക് പോകുന്നതെല്ലാം അവിടെയുണ്ട് ഇപ്പോൾ പറയൂ അത് നിങ്ങളായിരിക്കുമോ അതിനാൽ ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് ചോദ്യം Bill Joy Sun Micro System പയ്യൻ ശരിക്കും 2000 ൽ flutter സൃഷ്ടിച്ചു ഭാവിക്ക് നമ്മളെ ആവശ്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ ലോകവുമായി വലിയ ആശങ്കകൾ പങ്കുവെക്കാൻ അദ്ദേഹം തുടങ്ങി ഇത് സാങ്കേതികവിദ്യയുടെ രീതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യവർഗ്ഗത്തിൻറെ ആവശ്യകത ഇനി ഉണ്ടാകില്ല നമ്മുടെ സ്വന്തം സൃഷ്ടി നമ്മെ കൊല്ലുമായിരുന്നു അല്ലെങ്കിൽ അവർ ഇത് മാറ്റിസ്ഥാപിക്കുമായിരുന്നോ ഒരു കൊച്ചുകുട്ടി എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ 20 വർഷത്തിനുശേഷം എല്ലാ മരുന്നുകളും സാങ്കേതികവിദ്യയിലൂടെയും എഞ്ചിനീയർമാരിൽ നിന്നും ലഭിക്കും ഇത് സാങ്കേതികവിദ്യയുടെ കോണിൽ നിന്ന് നോക്കിയാൽ ശരിയാണ് പക്ഷേ വലിയ ചോദ്യം എന്തെന്നാൽ മനുഷ്യ ഇൻറെർഫേസിന് എന്ത് സംഭവിക്കുന്നു ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് സിസ്റ്റങ്ങൾക്കായുള്ള രോഗനിർണയത്തിനുള്ള അപ്ലിക്കേഷനുകൾ എംആർഐ ഒരു ദിവസം മൊബൈൽ രൂപത്തിൽ വന്നേക്കാം ക്ലിനിക്കൽ ആവശ്യങ്ങൾക്കായി മാഗ്നെറ്റിക് ഉപയോഗിക്കാം പാർക്കിൻസൺ രോഗാവസ്ഥയിൽ നമ്മൾ പെയ്സ് മേക്കർ നേരത്തെ ഇമ്പ്ലാൻറ് ചെയ്തിരുന്നു ബ്രെയിൻ ഉത്തേജനം ഉപയോഗിക്കുന്നു സ്ട്രോക്ക് സംഭവിക്കുന്ന ആളുകളിൽ പരാലിസിസ് സംഭവിച്ചിട്ടുള്ള വരിൽ അവർക്ക് ചലിക്കാൻ കഴിയില്ല കാണാൻ കഴിയാത്ത ആളുകളിൽ prostheses ധാരാളം വികസിച്ചിരുന്നു ആന്തരിക ബ്രെയിനിൽ congenital hearing problem ഉള്ള ആളുകളിൽ cochlear implant ഉപയോഗിക്കുന്നത് വളരെ പഴയ ഒരു രീതിയാണ് നിങ്ങളൊരു cochlear implant വയ്ക്കുന്നു അതിനെ പരിശീലിപ്പിക്കുന്നു നിങ്ങൾ പരിശീലിപ്പിച്ച മതിയാകൂ നിങ്ങൾ ഒരു കോക്ലിയർ ഇംപ്ലാന്റ് ഇടുകയാണെങ്കിൽ അത് യാന്ത്രികമായി പ്രവർത്തിക്കാൻ തുടങ്ങുകയും വ്യക്തിക്ക് ചെവി കേൾക്കുകയും ചെയ്യും ഞങ്ങൾ ഇപ്പോഴും അതിൽ നിന്ന് വളരെ അകലെയാണ് ഞങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് വളരെ അകലെയാണ് അവിടെ ഞങ്ങൾ എന്തെങ്കിലും ഇടപെടൽ ഇടുന്നു ആ വ്യക്തി സാധാരണ കാഴ്ചയിലേക്ക് മടങ്ങുന്നു കേൾവിയും എല്ലാം നിങ്ങൾ ഇപ്പോഴും കോക്ലിയർ ഇംപ്ലാന്റ് ട്രെയിൻ ഇടണം പാർക്കിൻസൺ രോഗാവസ്ഥയിൽ ആഴത്തിലുള്ളതും കോൺഷ്യസ്മായ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ ഒരു ഡീപ്പ് ട്രെയിൻ സിമുലേഷൻ ചലനം നടക്കുന്നു അതിനാൽ ഒരു റിഫ്ലെക്സ് പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ചലനം ഇച്ഛയിൽ നിന്ന് നീങ്ങുന്നു അത് മോട്ടോർ ഏരിയയെ ആവേശഭരിതമാക്കുന്നു മോട്ടോർ ഏരിയ പേശികളിലേക്ക് ഞരമ്പുകളിലേക്ക് സിഗ്നലുകൾ അയയ്ക്കുകയും നിങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു പക്ഷാഘാതം പിടിപെടുന്ന ഒരാൾ നാഡി സിഗ്നൽ പേശികളിലേക്ക് നീങ്ങാൻ പോകുന്നില്ല ഇത് ഒരു എഞ്ചിനീയറിംഗ് പ്രശ്നമാണ് ബ്രെയിനിലെ പല കാര്യങ്ങളും മാറ്റാനുള്ള മുൻകൈയുടെ ധാരാളം ഉദ്ദേശ്യങ്ങളും ബ്രെയിൻ സിഗ്നലും വിവേകവും ഉപയോഗിച്ച് ഉപയോഗയോഗ്യമായ കാര്യങ്ങളാക്കി മാറ്റുന്നത് യഥാർത്ഥത്തിൽ ഒരു എഞ്ചിനീയറിംഗ് പ്രശ്നമാണ് അതിനാൽ ഞാൻ എൻറെ വലതു കൈ ചലിപ്പിക്കും അതിനാൽ എൻറെ ഇടത് കൈ മോട്ടോർ ഇടത് മോട്ടോർ ഏരിയ സജീവമാകുന്നു പക്ഷേ പക്ഷാഘാതം കാരണം എനിക്ക് വലതു കൈ ചലിപ്പിക്കാൻ കഴിയില്ല അതിനാൽ വരുന്ന സിഗ്നൽ എന്താണ് സിഗ്നൽ സിഗ്നൽ EEG ആണ് അതിനാൽ ഓരോ പ്രവർത്തനത്തിനും അനുബന്ധ സിഗ്നൽ നമ്മളുടെ പക്കലുണ്ട് അത് എടുക്കുക അത് ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്ന കൈയിലേക്ക് ചിപ്പിലേക്ക് മാറ്റുക ആ ഒപ്റ്റിക്കൽ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഫൈബറുകൾ സിഗ്നൽ എടുക്കുന്നു എൻറെ കൈയിൽ എന്തോ ഘടിപ്പിച്ചിരിക്കുന്നു അത് നീങ്ങുന്നു എനിക്ക് നീക്കാൻ കഴിയും എന്തോ അടുത്ത് ഘടിപ്പിച്ചത് ഒരു മെക്കാനിക്കൽ കാര്യം മാത്രമാണ് മെക്കാനിക്കൽ കാര്യം നീങ്ങുന്നതിനനുസരിച്ച് എൻറെ വിരലും ചലിക്കുന്നു ഇവ അതിശയകരമായ കാര്യങ്ങളാണ് പുനരധിവാസവും ഈ വൈകല്യത്തിനു വേണ്ടിയും അവർ ധാരാളം ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് അതിൻറെ ന്യൂറോളജിക്കൽ ശാരീരിക ഭാഗമാണ് ഡിസ്ലെക്സിയയുടെ വൈകല്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് പാറ്റേൺ ആണോ വാക്കുകളുടെ വിഷ്വൽ പാറ്റേൺ എന്നിവ രൂപപ്പെടുന്നില്ല കുട്ടി എഴുതുമ്പോൾ അത് ശരിയായി ഉച്ചരിക്കാൻ കഴിയില്ല ഇതൊരു ആഴത്തിലുള്ള നെറ്റ്വർക്ക് പ്രശ്നമാണ് അത് അത്ര എളുപ്പത്തിൽ ലഭിക്കുകയോ ഉത്തേജിപ്പിക്കുകയോ ചെയ്യുകയോ ചെയ്യില്ല അതിനാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ ശാരീരിക ചലനവും സംവേദനവും നല്ലതാണ് പക്ഷേ ഞാൻ നിങ്ങളുടെ തലയിൽ നിന്ന് EEG എടുക്കുന്നു ഏത് വാക്കാണ് അത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് സാധ്യമാണോ നമ്മൾ ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല ഓട്ടിസം എന്നതിൽ അവിടെ കുട്ടി അമ്മയുടെ മുഖത്തേക്ക് നോക്കുകയോ പുഞ്ചിരിക്കുകയോ ചെയ്യുന്നില്ല സ്കീസോഫ്രീനിയ നെറ്റ്വർക്കിൽ എന്താണ് സംഭവിക്കുന്നത് സൈക്യാട്രിയിലെ ധാരാളം കാര്യങ്ങൾ ഉണ്ട് കാരണം ബ്രെയിൻ എന്നത് സൈക്യാട്രിയുടെ പരിധിയിൽ വരുന്നതാണ് പെരുമാറ്റത്തിലും അബ്സ്ട്രാക്റ്റ് ചിന്തയിലും വികാരത്തിലും ശാരീരികത അതിശയകരമാണ് ശാരീരികത അത് സംഭവിക്കുന്നുവെന്നും മാറാമെന്നും എനിക്ക് ഉറപ്പുണ്ട് മനസ്സ് എവിടെയാണ് എന്നാൽ ഇതിലെല്ലാം അതിനാൽ നമ്മൾ സംസാരിക്കുന്നത് ബ്രെയിനിനെകുറിച്ചും സിഗ്നലിനെക്കുറിച്ചും ആണ് മനസ്സ് എന്താണ് ചെയ്യുന്നത് അതേസമയം ബ്രെയിനിനെയും മനസ്സിനെയും പഠിക്കുന്നതിലെ പ്രശ്നം നമ്മൾ ബ്രെയിനിനെയും മനസ്സിനെയും സ്വയം പഠിക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് അതിനാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പ്രകൃതി പരിണാമം കാണപ്പെടുന്നുണ്ടെങ്കിലും ഈ സാങ്കേതികവിദ്യകൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കരുതുന്നുണ്ടോ ഈ പ്രയോജനകരമായ കാര്യത്തിന് മനസ്സും ഒരുപക്ഷേ വികസിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഇത് സാങ്കേതികവും കൃത്രിമവും പുതിയ തരം മനുഷ്യരും മനുഷ്യരുടെ സ്വാഭാവിക പരിണാമവും തമ്മിലുള്ള മൽസരമാണോ ബ്രെയിൻ എന്തെങ്കിലും ചെയ്യുന്നു ബ്രെയിൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകണം അത് സ്വന്തമായി വികസിക്കുന്നു അതിനാൽ മനസ്സ് ഒരു ഊർജ്ജമായി കരുതി നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് പോലെ നിങ്ങൾ ടെലിപതിയെക്കുറിച്ചും എല്ലാം സംസാരിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൽ മനസ്സിന്റെ സ്ഥാനം എവിടെയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇത് ശുദ്ധമായ ഊർജ്ജ സംവിധാനമാണോ അതോ ആശയവിനിമയം നടത്തുകയാണോ നമ്മൾക്ക് ഇപ്പോഴും ഉപകരണങ്ങളില്ല അല്ലാത്തപക്ഷം മിറർ ന്യൂറോണുകളെ നിങ്ങൾക്കറിയാമെങ്കിൽ പോലും നിങ്ങൾ ഉത്തേജനം പോലും കാണാൻ കഴിയാത്ത സന്ദർഭങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് മറ്റ് വ്യക്തിയെക്കുറിച്ച് തോന്നാം ടെലിപതി യഥാർത്ഥമാണോ പാരാ മാനസിക പ്രതിഭാസങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് ചോദിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ഒരു പൂർണമായ സെൽഫ് നൽകിയാൽ അത് നിങ്ങളായിരിക്കുമോ നിങ്ങൾക്ക് ഇത് ഡൌൺലോഡ് ചെയ്ത് ഇത് ഞാനാണെന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ഇത് അതിജീവനത്തെ ഇല്ലാതാക്കിയ ഒരു വലിയ ചോദ്യമാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യവും ഡിജിറ്റൈസ് ചെയ്തു നൽകുന്നു ശരിക്കും അത് നിങ്ങൾക്ക് കൈമാറുക നിങ്ങൾക്ക് അത് നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് കൈമാറാൻ കഴിയും അതിനാൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ കൊച്ചുമക്കൾ വർഷങ്ങൾക്കുശേഷം നമ്മളുടെ മുത്തച്ഛനെ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ഡിജിറ്റൈസ് ചെയ്ത എല്ലാ ചിന്തകളിലും അവർ ഒരു ചിപ്പ് പ്ലഗ് എടുക്കുന്നു എല്ലാം വരുന്നു അതിനാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും സന്ദർഭത്തിൽ നിന്നും സ്വയം നീക്കംചെയ്യുകയാണെങ്കിൽ എന്തിനുവേണ്ടിയാണ് വീണ്ടും നിങ്ങൾ എന്തിനാണ് അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വംശത്തിൽ ഇത്രയും കാലം കാരണം നമ്മൾ ഒരു നല്ല ജീവിതം നയിക്കേണ്ടതുണ്ട് അസുഖമില്ലാത്തതും എന്നാൽ നിങ്ങൾ സമൂഹത്തെ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ രോഗത്തിൻറെ സങ്കീർണ്ണതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വിശ്രമമില്ല എന്നിരുന്നാലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അസുഖം വർദ്ധിക്കുന്നതിൻറെ സങ്കീർണ്ണതയിലെ ഒരു വശത്ത് രോഗമാണ് മറുവശത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള സാങ്കേതികവിദ്യ വർദ്ധിപ്പിക്കുന്നു മറുവശത്ത് മരുന്നുകൾ മുഴുവൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായവും കൂടുതൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഒരു ദിവസം ജീനിനെ ബാധിക്കും ഒരുപക്ഷേ ബ്രെയിനിനെ നിയന്ത്രിക്കുന്ന ജീൻ ന്യൂറോണൽ വികസനം നിയന്ത്രിക്കുന്ന ജീൻ എല്ലാം അതിജീവനത്തിനായുള്ള ഓട്ടമാണ് ജീൻ അതിജീവനത്തിനായി ഇതിനകം തന്നെ ചെയ്യുന്നു നമ്മൾ ആണിതെന്ന് ഞാൻ കരുതുന്നു അമർത്യനാകാനുള്ള സ്വാഭാവിക മൃഗ പ്രവണതയാണ് ഇത് എല്ലാവരും എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പ്രകൃതി അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് പ്രകൃതിക്ക് സ്വന്തമായ വിഭവങ്ങളുണ്ട് അത് സ്വന്തമായി പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാൽ വ്യക്തിപരമായി നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അമർത്യനാണെങ്കിൽ എനിക്ക് വളരെ ബോറടിക്കും നിങ്ങൾ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഡിജിറ്റൈസ് ചെയ്ത ഡാറ്റ എടുക്കുക ഭൂമി വളരെ തിരക്കിലാണ് നിങ്ങളുടെ എല്ലാ ഡാറ്റയും ലേസറിൽ ഇടുക അത് ഓടിച്ച് മറ്റേതെങ്കിലും ഗ്രഹത്തിലേക്ക് അയയ്ക്കുക എന്ന് mesho kepo പറയുന്നതുപോലെ ആകാം നിങ്ങൾ എവിടെയെങ്കിലും അതിജീവിക്കും നിങ്ങൾ എവിടെയെങ്കിലും അതിജീവിക്കുമോ എന്നതിന് കുറച്ച് അർഥമുണ്ട് അതിന് ചില മൂല്യമുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയാനുള്ള ശക്തി മാത്രമാണോ അല്ലെങ്കിൽ അതിന് ശരിക്കും പ്രയോജനകരമായ ചില മൂല്യങ്ങൾ ഉണ്ടോ ധാർമ്മികമായ ചില ചോദ്യങ്ങൾ ഇവയാണ് അതിന് കാലം ഉത്തരം നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതിന് പ്രൊജക്റ്റീവ് ഉത്തരമൊന്നുമില്ല അതിന് രണ്ട് വഴികളിലൂടെയും പോകാം രണ്ട് വഴികളിലേക്കും പോകാം അതിനാൽ കാണിച്ചിരിക്കുന്നതുപോലെ നമുക്ക് മൊബൈൽ ആകാം വരാനിരിക്കുന്ന കുറച്ച് വർഷങ്ങളിൽ നിങ്ങളുടെ മൊബൈൽ ഇൻറർനെറ്റ് ഇപ്പോൾ വെറും 20 വർഷത്തിനുള്ളിൽ 20 21 വർഷത്തിനുള്ളിൽ പൊതു ഉപയോഗത്തിൽ ആകുന്നത് കാണാൻ രസകരമായിരിക്കും മൊബൈലുകൾ പിന്നീട് ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഇത് ഇതിനകം തന്നെ ശ്രദ്ധാകേന്ദ്രങ്ങളിൽ മാറ്റം വരുത്തി ഇതിനകം ബ്രെയിനിനെ പോലെയുള്ള കുപ്പി ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു ഈ അനാവശ്യ വിവരങ്ങളെല്ലാം ഒഴുകുന്നതിലൂടെ ഭാവിയിൽ അത് ഇപ്പോഴും നിർബന്ധിതമാവുകയാണ് ആളുകൾക്ക് ഇത് തടയാൻ കഴിയില്ല ബ്രെയിനിൻറെ പരിണാമത്തിന് സാങ്കേതികവിദ്യ എന്തുചെയ്യുമെന്നും സാങ്കേതികവിദ്യയെ ബ്രെയിൻ എന്തുചെയ്യുമെന്നതും രസകരമാണ് ഇത് കടന്നുപോകുന്ന ഒരു മങ്ങൽ മാത്രമാണ് അല്ലെങ്കിൽ അത് സ്ഥിരമാണ് എന്നത് നിങ്ങളുടെ കുട്ടികൾ ഉത്തരം നൽകേണ്ട ഒന്നാണ് നിങ്ങളിൽ ചിലർ അതിൽ നിന്ന് ആശയങ്ങൾ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതൽ മുന്നോട്ട് പോകുക അതിനാൽ ഇതെല്ലാം കേൾക്കാൻ ക്ഷമ കാണിച്ചതിന് വളരെ നന്ദി നിങ്ങൾ ഈ കോഴ്സ് ആസ്വദിച്ചുവെന്ന് കരുതുന്നു